നമസ്കാരം അതിനാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻറെ മോഡലിംഗ് ചർച്ച ചെയ്യും അടിസ്ഥാനപരമായി ഈ പ്രത്യേക കാര്യം നിങ്ങൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം നമ്മുടെ കോഴ്സിലുടനീളം നമ്മൾ ഇത് ചർച്ചചെയ്തു അതിനാൽ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻറെ മോഡലിംഗ് എന്താണെന്ന് നിങ്ങൾ വീണ്ടും മനസിലാക്കുകയും വൈദ്യുത സംവിധാനത്തെ മെക്കാനിക്കൽ സിസ്റ്റവുമായി താരതമ്യം ചെയ്യുകയും വൈദ്യുത സംവിധാനവുമായി ബന്ധപ്പെട്ട് മെക്കാനിക്കൽ സിസ്റ്റത്തിലെ സമാനതകൾ എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും അതിനാൽ ഇന്നത്തെ ചർച്ച നമുക്ക് ആരംഭിക്കാം നിഷ്ക്രിയ വൈദ്യുത മൂലകങ്ങളുടെ മോഡലിംഗ് നമ്മൾ ഇതിനകം കണ്ടതുപോലെ റെസിസ്റ്ററുകൾ ഇൻഡക്ടറുകൾ കപ്പാസിറ്ററുകൾ എന്നിവ നമ്മൾ ചർച്ചചെയ്തു അതിനാൽ റെസിസ്റ്റർനു കുറുകെ ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അതുപോലെ ഇൻഡക്റ്റർ L നുകുറുകെ വോൾട്ടേജ് ഡ്രോപ്പിനായി കപ്പാസിറ്ററിനായി കാപ്പാസിറ്റർ നു കുറുകെ ഉള്ള വോൾട്ടേജിൻറെ അടിസ്ഥാനത്തിൽ നിലവിലെ കറന്റ് i കണ്ടു അതിനാൽ നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത കാര്യമാണിത് ഇനി നമ്മൾ ഇത് വരെ കണ്ട സമവാക്യങ്ങളും നിയമങ്ങളും നമ്മുക് നോക്കാം അതിനാൽ ഓംസ് നിയമം അടിസ്ഥാനപരമായി റെസിസ്റ്ററുകൾക്ക് കുറുകെ ഉള്ള വോൾട്ടേജ് ഡ്രോപ്പിനെ നിർവചിക്കുന്നുവെന്നും റെസിസ്റ്ററിലുടനീളം ആയ വോൾട്ടേജ് ഡ്രോപ്പ് എന്നത് റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയ്ക്ക് ആനുപാതികമാണെന്നും റെസിസ്റ്ററുകൾക്ക് കുറുകെ ഉള്ള വോൾട്ടേജ് ഡ്രോപ്പിനെ ആണ് എന്നും നമ്മൾ ചർച്ച ചെയ്തു ഇൻഡക്റ്ററുകളുടെ കാര്യത്തിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻഡക്റ്ററിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയുടെ സമയത്തിൻറെ നിരക്കിന് ആനുപാതികമാണെന്ന് ഇപ്പോൾ ചർച്ചചെയ്തു അതിനാൽ നിങ്ങൾക്ക് എന്ന് പറയുന്നു കപ്പാസിറ്റർ നെ നമ്മൾ കറന്റിൻറെ അടിസ്ഥാനത്തിൽ ചർച്ചചെയ്തു അതായത് എന്നാൽ അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നിങ്ങൾ വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ കറന്റും കപ്പാസിറ്റൻസും കണക്കിലെടുത്ത് വോൾട്ടേജിനെ പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കപ്പാസിറ്റർ C സിയിലുടനീളം ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് സമയവുമായി ബന്ധപ്പെട്ട് കപ്പാസിറ്ററിലൂടെ പോകുന്ന വൈദ്യുതധാരയുടെ അവിഭാജ്യ അനുപാതം ആണ് എന്ന് എഴുതാൻ കഴിയും അതിനാൽ നമ്മൾ ഇപ്പോൾ ഇലക്ട്രിക്കൽ നെറ്റ്വർക്കുകളുടെ മോഡലിംഗിനായി ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിൻറെ സമവാക്യം എഴുതുന്നതിനുള്ള ക്ലാസിക്കൽ മാർഗ്ഗം നമ്മൾ ഉപയോഗിക്കുന്നു അത് രണ്ട് രീതികളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒന്ന് ലൂപ്പ് രീതിയും രണ്ടാമത്തേത് നോഡൽ സമീപനവും ഈ രണ്ട് സമീപനങ്ങളും കിർചോഫിൻറെKirchhoff's നിയമത്തിൽ നിന്ന് രൂപപ്പെടുത്തിയതാണ് അതിനാൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് അടിസ്ഥാനപരമായി കിർചോഫിൻറെKirchhoff's നിലവിലെ നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള നോഡൽ രീതി ചർച്ച ചെയ്യുകയും ഒരു പ്രത്യേക നോഡിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വൈദ്യുതധാരകളുടെയും ബീജഗണിത തുക പൂജ്യമാണെന്ന് പറയുകയും ചെയ്യുന്നു കിർചോഫിൻറെ വോൾട്ടേജ് നിയമത്തിന് ഒരു ലൂപ്പ് രീതി ആണ് ഒരു പൂർണ്ണ ക്ലോസ് ലൂപ്പിന് ചുറ്റുമുള്ള എല്ലാ വോൾട്ടേജ് ഡ്രോപ്പുകളുടെയും ബീജഗണിത തുക പൂജ്യമാണ് അതിനാൽ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളുടെ നിയന്ത്രണ ആണ് സമവാക്യങ്ങൾ കണ്ടെത്തുന്നതിന് നമ്മൾ ഉപയോഗിച്ച രണ്ട് പ്രധാന നിയമങ്ങൾ ഇവയാണ് ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഇലക്ട്രിക്കൽ സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ ശേഖരിച്ച അറിവ് എങ്ങനെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻറെ മാതൃകയിലേക്ക് പരിവർത്തനം ചെയ്യാമെന്ന് നോക്കാം അതിനാൽ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ആർഎൽസി സർക്യൂട്ട് നമുക്ക് പരിഗണിക്കാം ഇപ്പോൾ നിങ്ങൾ വോൾട്ടേജ് നിയമം ഉപയോഗിക്കുമ്പോൾ et പ്രയോഗിച്ച വോൾട്ടേജാണ് ഇൻഡക്റ്റൻസ് L ഉള്ള ശ്രേണിയിൽ നമ്മൾക്ക് റെസിസ്റ്റൻസ് R ഉണ്ട് കാപ്പാസിറ്റർ നു കുറുകെ ഉള്ള വോൾട്ടേജ് ec ഉം സർക്യൂട്ടിലൂടെ ഒഴുകുന്ന വൈദ്യുതധാര i ഉം ആണ് അതിനാൽ പ്രയോഗിച്ച വോൾട്ടേജ്എന്ന് നമുക്ക് എഴുതാൻ കഴിയും ഇപ്പോൾ പ്രയോഗിച്ച വോൾട്ടേജിൻറെ മൂല്യം ആണ് ഇപ്പോൾ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന വൈദ്യുതധാര ആണെന്നും നമുക്കറിയാം അതിനാൽ ഈ സമവാക്യത്തിൻറെ ഡെറിവേറ്റീവ് സമയത്തെ അടിസ്ഥാനമാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ന് എഴുതാം അതിനാൽ രണ്ട് സമവാക്യങ്ങളും സംയോജിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമവാക്യമാണിത് ഇപ്പോൾ കിർചോഫിൻറെ വോൾട്ടേജ് നിയമത്തിൽ നിന്ന് ലഭിച്ച ഈ പ്രധാന സമവാക്യം നമുക്ക് ലഭിച്ച സമവാക്യങ്ങൾ തുടർന്ന് കപ്പാസിറ്ററിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയുടെ മൂല്യം ഇതാണ് അതിനാൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫും ബ്ലോക്ക് ഡയഗ്രാമും ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ സർക്യൂട്ട് മാതൃകയാക്കാൻ നിങ്ങൾ ഈ രണ്ട് സമവാക്യങ്ങളും ഉപയോഗിക്കും അതിനാൽ നിങ്ങൾ ഇപ്പോൾ കണ്ട സീരീസ് ആർഎൽസി സർക്യൂട്ടിൻറെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം അതിനാൽ നമുക്ക് രണ്ട് സമവാക്യങ്ങളുണ്ട് അതിനാൽ ആദ്യത്തേത് ആണ് അതിനാൽ നമുക്ക് പുറത്തെടുക്കാം അതിനാൽ നിങ്ങൾ ഇത് ഇടതുവശത്ത് എടുത്ത് സമവാക്യം പുനർ ക്രമീകരിക്കുന്നു അതിനാൽ നമുക്ക് എന്താണ് എഴുതാൻ കഴിയുന്നത് എന്ന് എഴുതാം അതിനാൽ നമുക്ക് ലഭിക്കുന്ന ആദ്യ സമവാക്യമാണിത് രണ്ടാമത്തേത് നമുക്ക് ഇതിനകം തന്നെ ഉണ്ട് അത് ആണ് ഇപ്പോൾ ഈ രണ്ട് സമവാക്യങ്ങളും നമ്മൾക്ക് ലഭിച്ചു ആദ്യം നമ്മൾ നോഡുകൾ വ്യക്തമാക്കണം അതിനാൽ സാധാരണയായി കാപ്പാസിറ്റർ നു കുറുകെ ഉള്ള വോൾട്ടേജും നിലവിൽ ഇണ്ടക്ടർ ലൂടെ ഒഴുക്കുന്ന കറന്റ് ഉം രണ്ട് പ്രധാന സ്റ്റേറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളായി കണക്കാക്കുന്നു നിങ്ങൾ i എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഇവ രണ്ടും ഒരു നോഡായി എടുക്കുന്നു അതിനാൽ സർക്യൂട്ടിൽ നിന്ന് ആവശ്യമായ ഔട്ട്പുട്ട് ആണ് അതിനാൽ ഒരു ഔട്പുട്ടായി നമ്മൾ കണക്കാക്കുന്നു തുടർന്ന് നമുക്ക് ഉള്ള മറ്റ് വേരിയബിൾ നിലവിലെ i ആണ് അതിനാൽ നമുക്ക് ഈ രണ്ട് നോഡുകളും ലഭിച്ചു മൂന്നാമത്തേത് ഇൻപുട്ടാണ് ഇൻപുട്ട് ഇ ടി ആണ് അതിനാൽ നമ്മൾ നോഡിലും പ്രയോഗിക്കുന്നു ഇപ്പോൾ ഈ പ്രത്യേക സമവാക്യം നമുക്ക് ആവശ്യമുള്ളത് കാണിക്കുന്നതിന് നമുക്ക് ആവശ്യമാണ് അതിനാൽ എന്നിങ്ങനെ മറ്റൊരു നോഡ് നമ്മൾ ചേർക്കുന്നു സിഗ്നൽ ഫ്ലോ ഗ്രാഫിനെ പ്രതിനിധീകരിക്കുന്നതിന് ആവശ്യമായ എല്ലാ നോഡുകളും ഇപ്പോൾ നമുക്ക് ലഭിച്ചു ഇപ്പോൾ ഈ സമവാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ന് കാണാം അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചത് ഈ പ്രത്യേക നോഡിൻറെ സമവാക്യം ആണ് യുടെ ഇന്റഗ്രൽ i ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാമെന്നതിനാൽ ഫ്ലോയെ പ്രതിനിധീകരിക്കുന്നതിന് നിങ്ങൾ 1s ഒരു നേട്ടമായി ചേർക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് i ഉള്ളപ്പോൾ പ്രാരംഭ അവസ്ഥയും വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം സിഗ്നൽ ഫ്ലോ ഗ്രാഫിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഈ പ്രത്യേക വിവരം നിങ്ങൾക്കറിയാം തുടർന്ന് എങ്ങനെ സംയോജിത ബ്ലോക്ക് ചേർക്കാം എന്നും കണ്ടു അതിനാൽ നിങ്ങൾ സംയോജിപ്പിക്കുമ്പോൾ പ്രാരംഭ അവസ്ഥ വ്യക്തമാക്കുന്നു അതിനാൽ പ്രാരംഭ അവസ്ഥയെ നിങ്ങൾ ആയി കണക്കാക്കുന്നു അതിനാൽ അതും നിങ്ങൾ ചേർക്കുന്നു ഇപ്പോൾ അടുത്തതായി ഞാൻ യുമായി i എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്ന് നോക്കാം നിങ്ങൾ ഈ സമവാക്യം എടുക്കുകയാണെങ്കിൽ നേട്ടത്തിൻറെ സഹായത്തോടെ iയെ യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് എന്ന് എഴുതിയാൽ അതിനാൽ നിങ്ങൾ ഇത് യുമായി നേട്ടവുമായി ബന്ധിപ്പിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഇത് ബന്ധിപ്പിച്ചു ഇപ്പോൾ ഒടുവിൽ നിങ്ങൾ കണക്റ്റുചെയ്യേണ്ടത് ഉപയോഗിച്ച് ആണ് അതിനാൽ വീണ്ടും നമ്മൾ കണ്ടതുപോലെ എന്നിവ ഇവിടെ പ്രയോഗിക്കാൻ കഴിയും അതിനാൽ 1 s എന്ന ഇന്റഗ്രേറ്ററിലൂടെ കടന്നുപോകുമ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റർ ഉപയോഗിക്കുന്നു അതായത് നമുക്ക് മൂല്യം ലഭിക്കും കൂടാതെ പ്രാരംഭ അവസ്ഥയും അതിനാൽ ൻറെ മൂല്യം പ്രാരംഭ അവസ്ഥയായിരിക്കും അതും നമ്മൾ ഇതിൻറെ കൂടെ ചേർക്കും അതിനാൽ ഈ രണ്ട് സമവാക്യങ്ങളുടെ സഹായത്തോടെ നമ്മൾ ഇപ്പോൾ കണ്ട ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻറെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരയ്ക്കാൻ കഴിയും ഇപ്പോൾ അതേ സമയം നിങ്ങൾക്ക് ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫിനെ ബ്ലോക്ക് ഡയഗ്രാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾ ബ്ലോക്ക് ഡയഗ്രം കാണുകയാണെങ്കിൽ നിങ്ങൾ ഇൻപുട്ടിൻറെ ലാപ്ലേസ് പരിവർത്തനം ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് e ലഭിക്കും നേട്ടം 1 L ആണ് ഇത് സമ്മേഷൻ ബ്ലോക്കാണ് അതിനാൽ ഇൻപുട്ട് 1 L ൽ നിന്ന് ലഭിക്കുന്നത് യിൽ നിന്നുള്ള നേട്ടമാണ് അതിനാൽ ഇപ്പോൾ ഈ ബ്ലോക്കിലേക്ക് 1 L നേട്ടമായി ബന്ധിപ്പിക്കും ഇവിടെ നിങ്ങൾക്ക് സംഗ്രഹത്തിൻറെ ഭാഗമായി നെഗറ്റീവ് ലഭിക്കുന്നു അതിനാൽ പകരം ഈ തുക മൊത്തം മൂല്യത്തിൽ നിന്ന് കുറയ്ക്കും അതുപോലെ നിങ്ങൾ ഇവിടെ ലഭിക്കുന്ന നിലവിലെ i യുടെ മൂല്യം അതിനാൽ നിങ്ങൾക്ക് ഒരു നേട്ടമായി ലഭിക്കുന്നു തുടർന്ന് നിങ്ങൾ ഇതിൽ നിന്ന് വീണ്ടും കുറയ്ക്കുക അതിനാൽ ഈ പ്രത്യേക ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന മൂല്യം യഥാർത്ഥത്തിൽ യുടെ മൂല്യമാണ് അതിനാൽ നിങ്ങൾക്ക് ഇവിടെ എന്നു എഴുതാം ഇപ്പോൾ നിങ്ങൾ ഇത് വഴി ഒരു ബ്ലോക്കായി പരിവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കളുടെ മൂല്യം ലഭിക്കും ഇപ്പോൾ കൾ ഇവിടെ നിങ്ങൾ എന്ന പ്രാരംഭ അവസ്ഥ ചേർക്കും തുടർന്ന് നിങ്ങൾ കളിലൂടെ കടന്നുപോകുന്നു അതിനാൽ നിങ്ങൾക്ക് യുടെ മൂല്യം ലഭിക്കും ഒപ്പം പ്രാരംഭ അവസ്ഥയും ഇവ രണ്ടും സംഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് മൂല്യം ലഭിക്കും അതിനാൽ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നമ്മൾ ചർച്ച ചെയ്ത സീരീസ് ആർഎൽസി സർക്യൂട്ടിനെ സർക്യൂട്ടിൻറെ ഗണിതശാസ്ത്ര മോഡലാക്കി മാറ്റാൻ കഴിയും അതിനാൽ ഈ ബ്ലോക്ക് ഡയഗ്രം സീരീസ് ആർഎൽസി സർക്യൂട്ടിനെ പ്രതിനിധീകരിക്കും ഇപ്പോൾ അടുത്തത് അടിസ്ഥാനപരമായി നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻറെ രൂപത്തിൽ പ്രതിനിധീകരിച്ചിരിക്കുന്നു അതിനാൽ ഇതരമാർഗ്ഗം ഇതായിരിക്കാം നിങ്ങൾ അതിനെ സ്റ്റേറ്റ് വേരിയബിൾ രീതികളായി പ്രതിനിധീകരിക്കുന്നു അതിനാൽ ആ സീരീസ് ആർഎൽസി സർക്യൂട്ടിനെ സ്റ്റേറ്റ് വേരിയബിളുകളിലേക്ക് എങ്ങനെ പ്രതിനിധീകരിക്കാമെന്ന് മനസിലാക്കാം അതിനാൽ ഇൻഡക്റ്ററിലെ കറന്റ് കാപ്പാസിറ്റർ നു കുറുകെ ഉള്ള വോൾട്ടേജ് എന്നിവ സ്റ്റേറ്റ് വേരിയബിളുകളായി നിർണ്ണയിക്കുക എന്നതാണ് പ്രായോഗിക സമീപനം ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് തിരഞ്ഞെടുക്കുന്നത് കാരണം സ്റ്റേറ്റ് വേരിയബിളുകൾ സിസ്റ്റത്തിൻറെ ഊർജ്ജ സംഭരണ ഘടകവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ എൽ സി എന്നിവ ഊർജ്ജ സംഭരണ ഘടകങ്ങളായി കണക്കാക്കപ്പെടുന്നു ഇപ്പോൾ ഇൻഡക്റ്റർ ഗതികോർജ്ജവും കപ്പാസിറ്റർ സ്ഥിതികോർജ്ജവും അതായത് വൈദ്യുത സ്ഥിതികോർജ്ജവും സംഭരിക്കുന്നു അതിനാൽ എന്നിവ എപ്പോൾ വേണമെങ്കിലും സ്റ്റേറ്റ് വേരിയബിളായി നിയോഗിക്കുന്നതിലൂടെ സിസ്റ്റത്തിൻറെ പ്രാരംഭ അവസ്ഥകളായ ആർഎൽസി നെറ്റ്വർക്കിൻറെ നിലവിലുള്ളതും ഭാവിയിലുമുള്ള പൂർണ്ണമായ വിവരണം നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ നെറ്റ്വർക്കിനായുള്ള സ്റ്റേറ്റ് സമവാക്യങ്ങൾ ആദ്യം സിയിലെ വൈദ്യുതധാരയും L നു കുറുകെ ഉള്ള വോൾട്ടേജും സ്റ്റേറ്റ് വേരിയബിളും പ്രയോഗിച്ച വോൾട്ടേജും കണക്കിലെടുത്ത് എഴുതുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ കണ്ട മുമ്പത്തെ സമവാക്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഓർമിക്കാം കൂടാതെ സ്റ്റേറ്റ് വേരിയബിളുകൾ അനുസരിച്ച് എഴുതാനും കഴിയും അതിനാൽ നമുക്ക് ആ എഴുതാം അതിനാൽ ഈ സമവാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ നേടാനാകും മാത്രമല്ല ആ സമവാക്യത്തിൽ നിങ്ങൾക്ക് നിർബന്ധിത പ്രവർത്തനങ്ങളൊന്നുമില്ല അതിനാൽ ഒരു മാട്രിക്സിൻറെ A യുടെഘടകങ്ങൾ 0 ആയിരിക്കും ഈ സാഹചര്യത്തിൽ രണ്ടാമത്തെ സമവാക്യത്തിന് ൻറെ മൂല്യം അതിനാൽ നമുക്ക് ഇത് സമാഹരിക്കാനാകും അതിനാൽ നെതിരെ ഉം i നെതിരായി ഉം എഴുതുന്നു അതിനാൽ ഈ രീതിയിൽ നമുക്ക് മാട്രിക്സ് എ പ്ലസ് ബി മാട്രിക്സ് ലഭിക്കുന്നു നിങ്ങൾക്ക് ബി യിലെ ആദ്യ ഘടകമായി 0 ലഭിക്കുന്നു അടുത്തത് ആണ് കാരണം രണ്ടാമത്തെ സമവാക്യത്തിൽ നമുക്ക് നിർബന്ധിത പ്രവർത്തനം ഉണ്ട് അതിനാൽ എങ്ങനെയാണെങ്കിലും ഇൻപുട്ട് ആണ് അതിനാൽ നിങ്ങൾക്ക് B ആയി ലഭിക്കും അതിനാൽ ഇപ്പോൾ ഈ കേസിലെ സ്റ്റേറ്റ് വേരിയബിളുകൾ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഈ സമവാക്യം ഇതുപോലെ ലളിതമാക്കാൻ കഴിയും അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കിർചോഫ് kirchoff's വോൾട്ടേജ് നിയമം ഉപയോഗിച്ച് ആർഎൽസി സർക്യൂട്ടിനായി നിങ്ങൾ എഴുതുന്ന സമവാക്യങ്ങളുടെ സഹായത്തോടെ എളുപ്പത്തിൽ സ്റ്റേറ്റ് സമവാക്യത്തിലേക്ക് മാറ്റാൻ കഴിയും ഇപ്പോൾ നിങ്ങളുടെ പക്കൽ ഈ വിവരങ്ങളെല്ലാം ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സിസ്റ്റത്തിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാൻ കഴിയും ഇപ്പോൾ നമുക്ക് ഇവിടെ 2 വേരിയബിളുകൾ ഉള്ളതിനാൽ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ യുടെ അടിസ്ഥാനത്തിൽ എഴുതാം അതാണ് കാപ്പാസിറ്റർ നു കുറുകെ ഉള്ള വോൾട്ടേജും സർക്യൂട്ടിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയും അതിനാൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻറെ സഹായത്തോടെ അല്ലെങ്കിൽ ഇപ്പോൾ കണ്ട ബ്ലോക്ക് ഡയഗ്രം ആയിരിക്കാം നമ്മൾക്ക് ഈ വിവരങ്ങൾ കംപൈൽ ചെയ്യാൻ കഴിയും നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷനായ എഴുതാം അതിനാൽ നിങ്ങൾ എഴുതുകയും ലളിതമാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ലഭിക്കും ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഉദാഹരണം നോക്കാം നിങ്ങൾക്ക് ചിത്രത്തിൽ ആർസി സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ സമവാക്യവും സിസ്റ്റത്തിൻറെ ലാപ്ലേസ് ട്രാൻസ്ഫോർമും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ നമുക്ക് എന്തുചെയ്യാൻ കഴിയും അടിസ്ഥാനപരമായി സിസ്റ്റത്തിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ കിർചോഫ് വോൾട്ടേജ് നിയമം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇൻപുട്ട് എന്ന് എഴുതാം അതിനാൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചിത്രം കാണുകയാണെങ്കിൽ ഔട്പുട്ടായ മുതലായവ കാണാം ഇപ്പോൾ മുകളിലുള്ള സമവാക്യത്തെ സമയവുമായി ഡിഫറെൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ന് എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹ്രസ്വ രൂപത്തിൽ എന്ന് എഴുതാം അതിനാൽ ഇപ്പോൾ നമുക്ക് 1 സമവാക്യം ലഭിച്ചു തുടർന്ന് നമ്മൾ ഇത് കിർചോഫ് വോൾട്ടേജ് നിയമ സമവാക്യത്തിലേക്ക്

അതിനാൽ ഇവിടെ നിങ്ങൾക്ക് ലാപ്ലേസിൻറെ അടിസ്ഥാനത്തിൽ എന്താണ് എഴുതാൻ കഴിയുക നിങ്ങൾക്ക് എഴുതാം അതിനാൽ ലാപ്ലേസ് ഡൊമെയ്നിലെ ഇതിൻറെ സഹായത്തോടെ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എളുപ്പത്തിൽ ലഭിക്കും ട്രാൻസ്ഫർ ഫംഗ്ഷൻ അതിനാൽ കിർചോഫ് വോൾട്ടേജ് നിയമം അല്ലെങ്കിൽ കിർചോഫ് കറണ്ട് നിയമവുമായി ബന്ധപ്പെട്ട പരമ്പരാഗത സമവാക്യങ്ങളുടെ സഹായത്തോടെ നിങ്ങളുടെ സർക്യൂട്ട് ലാപ്ലേസ് ഡൊമെയ്നിലേക്ക് പരിവർത്തനം ചെയ്യാനും സിസ്റ്റത്തിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടെത്താനും കഴിയും ഇപ്പോൾ നമുക്ക് സമാനതകളെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ ആദ്യം നമ്മൾ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സമധർമ്മങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും അതിനാൽ മെക്കാനിക്കൽ സിസ്റ്റത്തെ അവയുടെ ഇലക്ട്രിക്കൽ അനലോഗ് വഴി പഠിക്കാൻ കഴിയും അത് അനുബന്ധ മെക്കാനിക്കൽ സിസ്റ്റങ്ങളുടെ മോഡലുകളേക്കാൾ എളുപ്പത്തിൽ ഘടനാപരമായി നിർമ്മിക്കാം അതിനാൽ അടിസ്ഥാനപരമായി മെക്കാനിക്കൽ സിസ്റ്റങ്ങൾക്കായി നമ്മൾ 2 ഇലക്ട്രിക്കൽ സമധർമ്മങ്ങൾ പഠിക്കും ആദ്യത്തേത് ഫോഴ്സ് വോൾട്ടേജ് സമധർമ്മവും രണ്ടാമത്തേത് ഫോഴ്സ് കറന്റ് സമധർമ്മമാണ് അതിനാൽ ആദ്യം നമുക്ക് ഫോഴ്സ് വോൾട്ടേജ് സമധർമ്മം മനസ്സിലാക്കാം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന മെക്കാനിക്കൽ സിസ്റ്റം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡാഷ്പോട്ടും ഒരു സ്പ്രിംഗും ഉണ്ട് അതിൽ പിണ്ഡം M കണക്റ്റുചെയ്തിരിക്കുന്നതും ഫോഴ്സ് F പ്രയോഗിക്കുന്നതും x സ്ഥാനചലനം നൽകുന്നു ഇപ്പോൾ ഈ മെക്കാനിക്കൽ സംവിധാനം അടിസ്ഥാനപരമായി ഇത് ട്രാൻസ്ലേഷണൽ മെക്കാനിക്കൽ സംവിധാനമാണ് അതിനാൽ നമ്മൾ ആദ്യം ഗണിത സമവാക്യം എഴുതണം അതിനാൽ നിങ്ങൾ ഗണിതശാസ്ത്ര സമവാക്യം എഴുതുമ്പോൾ ഇത് വൈദ്യുത സംവിധാനത്തിൻറെ മെഷ് സമവാക്യവുമായി താരതമ്യം ചെയ്യും തുടർന്ന് നിങ്ങൾക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻറെ സമാന അളവുകൾ സ്ഥിരീകരിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ ആദ്യം ട്രാൻസ്ലേഷണൽ മെക്കാനിക്കൽ സിസ്റ്റത്തിനായി ഗണിത സമവാക്യം എഴുതാം അത് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നു അതിനാൽ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക അതിനാൽ നിങ്ങൾക്ക് ഉണ്ട് Fm എന്നത് ന് തുല്യമാണെന്ന് പറയുന്നു ഇത് പിണ്ഡം മൂലമാണ് തുടർന്ന് വിസ്കോസ് ഘർഷണം കാരണം എന്നത് ഉം പിന്നീട് സ്പ്രിംഗ് സാന്നിധ്യം കാരണം ഉം ആണ് അതിനാൽ നിങ്ങൾക്ക് ബലം എഴുതാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ വോൾട്ടേജ് V പ്രയോഗിക്കുന്ന ഒരു സീരീസ് ആർഎൽസി സർക്യൂട്ട് പരിഗണിക്കാം കൂടാതെ കറന്റ് i ആയി പ്രവഹിക്കുന്നു അതിനാൽ നിങ്ങൾ കാണുന്ന ഇലക്ട്രിക്കൽ സിസ്റ്റതിനുള്ള സമവാക്യം എഴുതുന്നു മുകളിലുള്ള സമവാക്യത്തിൽ മാറ്റിസ്ഥാപിക്കാം അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് എഴുതാൻ കഴിയുക നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഈ സമവാക്യം അതിനാൽ നിങ്ങൾ പുന ക്രമീകരിക്കുകയാണെങ്കിൽ ആദ്യം ഉയർന്ന ഓർഡർ പദം എടുക്കുക അതിനാൽ നിങ്ങൾക്ക് എഴുതാം അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഗണിത സമവാക്യവും മെക്കാനിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഗണിത സമവാക്യവും ഉണ്ട് ഇപ്പോൾ ഇവ രണ്ടും താരതമ്യം ചെയ്യാം അതിനാൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്നിവയുമായി ബന്ധപ്പെട്ട സമവാക്യങ്ങൾ താരതമ്യം ചെയ്താൽ ട്രാൻസ്ലേഷണൽ മെക്കാനിക്കൽ സിസ്റ്റത്തിൻറെയും ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻറെയും സമാന അളവുകൾ ലഭിക്കും അതിനാൽ നിങ്ങൾ രണ്ട് സമവാക്യങ്ങളും താരതമ്യം ചെയ്താൽ ട്രാൻസ്ലേഷണൽ മെക്കാനിക്കൽ സിസ്റ്റത്തിൻറെ കാര്യത്തിൽ എഫ് ആയത് വൈദ്യുത സംവിധാനത്തിലെ വോൾട്ടേജ് വിക്ക് സമാനമാണെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും പിണ്ഡം എം ഇൻഡക്റ്റൻസിന് സമാനമാണ് ബി എന്ന ഘർഷണ ഗുണകം R റെസിസ്റ്റൻസ്നു സമാനമാണ് സ്പ്രിംഗ് സ്ഥിരാങ്കം K കപ്പാസിറ്റൻസിൻറെ റേസിപ്രോക്കൽ നു 1C ക്കു തുല്യമാണ് x എന്ന സ്ഥാനചലനം q ചാർജ് നു സമാനമായിരിക്കുമെന്ന് നിങ്ങൾ കാണുന്നു തുടർന്ന്എടുത്താൽ നിങ്ങൾക്ക് വേഗത v ലഭിക്കും ഒപ്പം q അത് dq dt എടുത്താൽ നിങ്ങൾക്ക് i ലഭിക്കും അതിനാൽ വേഗത v നിലവിലെ i ന് സമാനമാണ് അതിനാൽ മെക്കാനിക്കൽ സിസ്റ്റത്തിൻറെ വ്യത്യസ്ത അളവുകൾ വൈദ്യുത സംവിധാനവുമായി സാമ്യമുള്ളതാണെന്ന് ഈ ഉദാഹരണം കാണിക്കുന്നു നമുക്ക് റൊട്ടേഷൻ സിസ്റ്റവും എടുക്കാം അതിനാൽ നിങ്ങൾ ബലത്തിനുപകരം ടോർക്കിനെ വോൾട്ടേജുമായി താരതമ്യം ചെയ്യുന്നു അതിനാൽ ടോർക്ക് വോൾട്ടേജിൻറെ കാര്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാമ്യത നിങ്ങൾ ആദ്യം ഒരു ഭ്രമണ സംവിധാനത്തെ പരിഗണിക്കുന്നു ഇവിടെ g എന്നത് ഭ്രമണം ചെയ്യുന്ന ശരീരത്തിൻറെ ജഡത്വമാണ് ടോർക്ക് ടി പ്രയോഗിച്ച ടോർക്ക് ആണ് ബി വിസ്കോസ് ഘർഷണം ആണ് ഇത് കോണിൻറെ സ്ഥാനചലനം നൽകുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ടോർക്ക് എഴുതാൻ കഴിയുന്നത് അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് റൊട്ടേഷൻ മെക്കാനിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട സമവാക്യം ലഭിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഇത് വീണ്ടും RLC സർക്യൂട്ട് സമവാക്യവുമായി താരതമ്യം ചെയ്യും അതിനാൽ സീരീസ് ആർഎൽസി സർക്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത് ഇപ്പോൾ ഇവ രണ്ടും താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ടോർക്ക് ടി വോൾട്ടേജ് V യോട് സാമ്യമുള്ളതാണ് ജഡത്വത്തിൻറെ നിമിഷം J എന്നത് ഇൻഡക്റ്റൻസ് L ന് സമാനമാണ് ഭ്രമണ ഘർഷണ കോഫിഫിഷ്യന്റ് B ആണ് അത് പ്രതിരോധം R ന് സമാനമാണ് ടോർഷണൽ സ്പ്രിംഗ് സ്ഥിരാങ്കം അത് കപ്പാസിറ്റൻസ് സി യുടെ റേസിപ്രോക്കൽ നു തുല്യമാണ് നിങ്ങൾക്ക് പറയാൻ കഴിയും കോണീയ സ്ഥാനചലനം q ചാർജ് ന് സമാനമാണ് തുടർന്ന് വീണ്ടും യുടെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് dθ dt ന് തുല്യമായ കോണീയ വേഗത ലഭിക്കും നിലവിലെ i മറ്റൊന്നുമല്ല ന് സമാനമാണ് അതിനാൽ ട്രാൻസ്ലേഷണൽ റൊട്ടേഷൻ മെക്കാനിക്കൽ സംവിധാനവും നമ്മൾ കണ്ടു ഇന്നത്തെ ചർച്ചയിൽ ഇലക്ട്രിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട സമാനതകൾ നമ്മൾ വിവരിച്ചു നാളെ നമ്മൾ ചർച്ച തുടരും അവിടെ കൂടുതൽ യാന്ത്രിക ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യും അതിനാൽ ഇതിൽ നിങ്ങൾഫോഴ്സ് വോൾട്ടേജ് സമധർമ്മം ചർച്ചചെയ്തു നാളെ ഫോഴ്സ് കറന്റ് സമധർമ്മം ചർച്ചചെയ്യും തുടർന്ന് നിങ്ങൾ നിങ്ങളുടെ പാഠ്യക്രമം അവസാനിപ്പിക്കും